അതിനാൽ അടുത്ത ഫോം എന്നു പറയുന്നത് ബോയ്സ് കോഡ് നോർമൽ ഫോം അല്ലെങ്കിൽ ബി സി എൻ എഫ് ഇത് ബോയ്സ് കോഡ് നോർമൽ ഫോമാണ് X→Y എന്നത് നിസ്സാരമല്ലാത്ത FD ആണെങ്കിൽ ഒരു റിലേഷൻ ബോയ്സ് കോഡ് നോർമൽ ഫോമിലാണ് അങ്ങനെയാണെങ്കിൽ X ഒരു സൂപ്പർ കീ ആണ് അതിനാൽ നിസ്സാരമല്ലാത്ത ഓരോ എഫ്ഡിക്കും ഇടത് വശത്ത് ഒരു സൂപ്പർ കീ ആയിരിക്കണം ഒരു ബദൽ നിർവചനം ഉണ്ട് അത് എന്താണെന്നാൽ ഓരോ FD X→Y ക്കും ഒന്നുകിൽ അത് നിസ്സാരമാണ് അല്ലെങ്കിൽ X സൂപ്പർ കീ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തുല്യത വളരെ എളുപ്പമാണ് ഇത് അടിസ്ഥാനപരമായി നിസ്സാരമല്ലാത്ത കാര്യത്തിലേക്ക് വിഭജിക്കുന്നു അപ്പോൾ ബിസിഎൻഎഫ് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് 3NF നേക്കാൾ ഉയർന്ന ഫോമിലേക്ക് പോകാൻ ശ്രമിക്കുന്നു പ്രവർത്തനപരമായ ആശ്രിതത്വം ഉണ്ടാകുമ്പോഴെല്ലാം അത് നിസ്സാരമല്ലെന്ന് പറയാൻ ശ്രമിക്കുന്നു തുടർന്ന് ഇടതുവശം സൂപ്പർ കീയിലായിരിക്കണം അതിനാൽ എല്ലാ ബന്ധങ്ങളും പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ കീകളിൽ മാത്രമായിരിക്കണം അത് മറ്റൊന്നിന്മേലും ആയിരിക്കരുത് എന്ന് ഇത് പറയാൻ ശ്രമിക്കുന്നു അതിനാൽ ഒരു പ്രവർത്തനപരമായ ആശ്രിതത്വം X→Y ഉണ്ടെങ്കിൽ X ഒരു സൂപ്പർ കീ ആയിരിക്കണം അതിനാൽ അതാണ് അത് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ബിസിഎൻഎഫ് നോർമലൈസേഷൻ പ്രക്രിയ Normalization യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമായിരിക്കാം അതിനാൽ അതിനുമുമ്പ് നമ്മൾ നേരത്തെ നോക്കിയ ഉദാഹരണം നമുക്ക് പരിഗണിക്കാം അതിനാൽ നമ്മൾ നേരത്തെ നോക്കിയ L11 ന് ശേഷമുള്ള ബന്ധം ഇതാണ് ഇത് ഓർമിക്കാൻ മാത്രമാണ് ജില്ലയും ലോട്ടും വിസ്തീർണ്ണവും എല്ലാം ഐഡി നിർണ്ണയിക്കുന്ന ആശ്രിതത്വമായിരുന്നു ഇത് എന്നിരുന്നാലും ജില്ലയും ലോട്ടും ഒരുമിച്ച് ഐഡിയും പ്രദേശവും നിർണ്ണയിക്കുന്ന മറ്റൊരു ആശ്രിതത്വം അവിടെ ഉണ്ടായിരുന്നു നമുക്ക് പറയാം ഇത് മറ്റൊരു കാര്യമായിരുന്നു പ്രദേശം ജില്ലയെ നിർണ്ണയിക്കുന്നു അതിനാൽ ചോദ്യം ഇതാണ് ഇത് ബിസിഎൻഎഫിലാണോ ഉത്തരം അല്ല കാരണം ഈ പ്രവർത്തനപരമായ ആശ്രിതത്വം തന്നെ മറ്റ് രണ്ട് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ നല്ലതാണ് ഈ പ്രവർത്തനപരമായ ആശ്രിതത്വം കാരണം പ്രദേശം ജില്ലയെ നിർണ്ണയിക്കുന്നു എന്നാൽ പ്രദേശം സ്വയം ഒരു സൂപ്പർ കീ അല്ല അതിനാൽ ഇവിടെയാണ് ഇത് പരാജയപ്പെടുന്നത് അതിനാൽ ഈ ബന്ധം BCNF ൽ അല്ല അതിനാൽ ഈ ബിസിഎൻഎഫിനെ സാധാരണവൽക്കരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് അയാൾക്ക് ഐഡി ലോട്ട് ഏരിയ എന്നിങ്ങനെ വിഭജിക്കാൻ ആകും പിന്നെ അത് ജില്ല മുതൽ പ്രദേശം വരെ ആകാം അത്രയും ആണ് ശെരി ഇപ്പോൾ ഇതിലെ പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തേത് ഇവിടെ പ്രവർത്തനപരമായ ആശ്രിതത്വം ഐഡിയും ലോട്ടും പ്രദേശവും നിർണ്ണയിക്കുന്നു കൂടാതെ പ്രദേശം ജില്ലയെ നിർണ്ണയിക്കുന്നു അതിനാൽ വളരെ പ്രധാനമായി ബിസിഎൻഎഫ് നോർമലൈസേഷന് ശേഷം ഇതാണ് ബിസിഎൻഎഫ് നോർമലൈസേഷന്റെ പ്രക്രിയ ഇവിടെ പ്രധാനപ്പെട്ട ചിലത് ഒരാൾക്ക് കാണാൻ കഴിയും അത് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ നഷ്ടപ്പെടുമെന്നതാണ് അതിനാൽ നഷ്ടപ്പെട്ട ചില പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങളുണ്ട് അപ്പോൾ നഷ്ടപ്പെട്ട പ്രവർത്തനപരമായ ആശ്രിതത്വം എന്തെല്ലാമാണ് ഈ പ്രവർത്തനപരമായ ആശ്രിതത്വം നഷ്ടപ്പെട്ടു അതിനാൽ ബിസിഎൻഎഫ് നോർമലൈസേഷൻ പൂർത്തിയായതിനുശേഷം എല്ലാ പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങളും സംരക്ഷിക്കാൻ എല്ലായ്പ്പോഴും ഒരാൾക്ക് കഴിയില്ല അതിനാൽ ഇത് പ്രശ്നമാകാം അല്ലെങ്കിൽ പ്രശ്നമാകാതിരിക്കാം പക്ഷേ അതാണ് കാര്യം അതിനാൽ പ്രവർത്തനപരമായ ആശ്രിതത്വം നഷ്ടപ്പെട്ടേക്കാം അതിനാൽ BCNF നെ എല്ലാം കീയെ മാത്രം ആശ്രയിക്കുന്ന ഒന്നായി അനൌപചാരികമായി സംഗ്രഹിക്കാം അതിനാൽ അതാണ് പറയുന്ന രീതി അപ്പോൾ ബിസിഎൻഎഫ് നോർമലൈസേഷൻ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ ജില്ല മുതൽ പ്രദേശം വരെ ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്നു അതിനാൽ ഒരാൾക്ക് പ്രദേശം അറിയാമെങ്കിൽ ഒരാൾക്ക് ജില്ല അറിയാം എന്നാൽ പ്രദേശം ഒരു കീ അല്ല അതിനാൽ ബിസിഎൻഎഫിൽ അത് പ്രദേശം മാറുന്നതായി സംഭവിക്കാം മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പ്രദേശം മാറിയാൽ ജില്ലയും മാറ്റേണ്ടതുണ്ട് അതിനാൽ വീണ്ടും ഒരു ആട്രിബ്യൂട്ടിനെ മാറ്റുന്നത് മറ്റ് ആട്രിബ്യൂട്ടുകൾ മാറ്റപ്പെടുന്ന തരത്തിലുള്ള അഥവാ അത് മാറ്റുന്നത് വഴി യാതൊരു പ്രയോജനവുമില്ലാത്തപ്പോൾ തന്നെ അപാകതകളുമായി പ്രശ്നം വരുന്നു അതിനാൽ ബിസിഎൻഎഫ് വിഘടിപ്പിക്കുന്നതിന്റെ മറ്റൊരു പ്രശ്നം അത് എല്ലായ്പ്പോഴും സാധ്യമല്ല എന്നതാണ് അതിനാൽ സാധ്യമല്ല നഷ്ടമില്ലാത്തത് എല്ലായ്പ്പോഴും സാധ്യമായേക്കില്ല എന്ന അർത്ഥത്തിൽ അതിനാൽ അതിന് ചിലത് നഷ്ടപ്പെടാം ചിലപ്പോൾ അതിന് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ മാത്രമല്ല നഷ്ടപ്പെടുന്നത് ഡികമ്പോസിഷൻ നഷ്ടമില്ലാത്തതായിരിക്കില്ല ഉദാഹരണത്തിന് ഇനിപ്പറയുന്ന രീതിയിൽ ഒരു ബന്ധം നമുക്ക് പരിഗണിക്കാം ഒരു പട്ടണവും സംസ്ഥാനവും ജില്ലയും അതിനാൽ പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ പട്ടണവും സംസ്ഥാനവും ഒരുമിച്ച് ജില്ലയെ നിർണ്ണയിക്കുന്നു എന്നതാണ് കൂടാതെ ജില്ലയുടെ പേര് സംസ്ഥാനത്തെ നിർണ്ണയിക്കുന്നു അതിനാൽ ഇവ രണ്ട് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങളാണെന്ന് കരുതുക ഇപ്പോൾ തീർച്ചയായും ഇത് BCNF ൽ ഇല്ല അതിനാൽ ഇത് ബിസിഎൻഎഫായി വിഭജിക്കാനുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തിലേക്കാണ് പ്രശ്നം എന്നാണ് അതിനാൽ നമുക്ക് അതിനെ ഈ രണ്ട് റിലേഷൻഷിപ്പ് എന്ന സ്ഥിതിയിലേക്ക് വിഭജിക്കാം ജില്ലയും പട്ടണവും സംസ്ഥാനവും അതിനാൽ നമുക്ക് ജില്ലയും സംസ്ഥാനവും ഒന്നിച്ചു വേർപെടുത്താം കൂടാതെ ഇതും അഥവാ പട്ടണവും സംസ്ഥാനവും പക്ഷേ ഇത് എവിടെയെല്ലാം പരാജയപ്പെടുമെന്നതിനുള്ള ഒരു ഉദാഹരണം ഇതാ അതിനാൽ പട്ടണവും സംസ്ഥാനവും ജില്ലയും ഇത് ഒരു ഉദാഹരണമാണ് അതിനാൽ ഐഐടി യുപിയിലെ ഒരു പട്ടണമാണ് അത് കിഴക്ക് ഭാഗത്തുള്ള ഒരു ജില്ലയിലാണെന്നും കരുതുക എന്നാൽ പശ്ചിമ ബംഗാളിലും ഉള്ള ഒരു പട്ടണമാണ് ഐഐടി പിന്നെ പ്രയാഗ് യുപിയിലും പശ്ചിമ ബംഗാളിലും ഉണ്ട് അതുപോലെ തന്നെ കാൺപൂരും ലക്നൌവും അങ്ങനെ ഉള്ള എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഒരാൾ അതിനെ ഈ സംസ്ഥാനം ജില്ല നഗരം എന്നിങ്ങനെ വിഭജിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താണ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനാൽ സംസ്ഥാനം ജില്ല എന്നിങ്ങനെ ഒരാൾ വിഭജിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യുപി കിഴക്ക് പശ്ചിമ ബംഗാൾ എംഡിപി പിന്നെ പശ്ചിമ ബംഗാൾ ദിനാജ് യുപി മധ്യം യുപി പടിഞ്ഞാറ് എന്നിങ്ങനെ ലഭിക്കും നഗരവും സംസ്ഥാനവും എന്നിങ്ങനെ ഒരാൾ വിഭജിക്കുകയാണെങ്കിൽ മറ്റുള്ള ആറെണ്ണവും അവിടെയുണ്ട് ഇത് നിർവചനമാണോ എന്ന് പരിശോധിക്കാവുന്നതാണ് ഈ ഡി കമ്പോസിഷൻ നഷ്ടം ഇല്ലാത്തതല്ല അല്ല കാരണം നിങ്ങൾ ഇത് യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥ ബന്ധം തിരികെ ലഭിക്കില്ല അതിനാൽ ഇത് നഷ്ടമാണ് ഒരു സാഹചര്യത്തിലും ഇത് അനുവദിക്കാനാവില്ല അതിനാൽ ഈ ഡികമ്പോസിഷൻ തെറ്റാണ് ഇത് അനുവദനീയമല്ല ബിസിഎൻഎഫ് ഡികമ്പോസിഷൻ നിയമം തെറ്റായിരിക്കാം എന്നും ഈ ബന്ധം വേറൊരു തരത്തിലും വിഭജിക്കാൻ കഴിയില്ല എന്നെല്ലാം ഒരു വാദത്തിനു വേണ്ടി പറയാൻ ഒരാൾക്ക് കഴിയും ഉദാഹരണത്തിന് ഒരാൾ അതിനെ നഗരം സംസ്ഥാനം നഗരം ജില്ല അല്ലെങ്കിൽ സംസ്ഥാനം ജില്ല നഗരം ജില്ല എന്നിങ്ങനെ വിഭജിക്കാൻ ശ്രമിച്ചാൽ ഇതൊന്നും യഥാർത്ഥ രൂപം തിരികെ നൽകില്ല അതിനാൽ ബിസിഎൻഎഫ് ഡികമ്പോസിഷന്റെ പ്രശ്നമാണിത് അതിനാൽ ഒരു ബന്ധം ബിസിഎൻഎഫിലാണെന്ന് ഉറപ്പാക്കാൻ എല്ലായ്പ്പോഴും സാധ്യമല്ല അത് സാധ്യമായേക്കാം അല്ലെങ്കിൽ സാധ്യമായേക്കില്ല ബിസിഎൻഎഫിന് മറ്റൊരു പ്രശ്നമുണ്ട് അത് ഇതിന്റെ ഒരു അപാകതയാണ് ബിസിഎൻഎഫിൽ സംഭവിക്കാവുന്ന ഒരു പ്രത്യേക അപാകതയുണ്ട് ഉദാഹരണത്തിന് ഒരു കോഴ്സിന്റെയും അധ്യാപകന്റെയും പുസ്തകങ്ങളുടെയും ബന്ധം പരിഗണിക്കുക അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ അതിനാൽ ഈ മൂന്നും ഒരുമിച്ച് പ്രൈമറി കീ ആണ് അതിനാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത് എന്നാൽ നിങ്ങൾ ഒരു കോഴ്സ് ഡാറ്റാബേസ് പരിഗണിക്കുന്നുവെന്ന് കരുതുക ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിരവധി അധ്യാപകർക്ക് ഇത് പഠിപ്പിക്കാൻ കഴിയും കൂടാതെ ഓരോ അധ്യാപകർക്കും നിരവധി പുസ്തകങ്ങൾ എടുക്കുകയും ചെയ്യാം അതിനാൽ ഈ കാര്യത്തിന്റെ ഒരു പ്രത്യേക സംബോധനം ഇനിപ്പറയുന്ന രീതിയിൽ ആയിരിക്കാം അതിനാൽ ഒരു അധ്യാപകന് പഠിപ്പിക്കാൻ കഴിയുന്ന ഡാറ്റാബേസ് കോഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം നമുക്ക് എബി എന്ന് വിളിക്കാം എന്തു തന്നെയാണെങ്കിലും ഇതെല്ലാം പുസ്തകങ്ങളുടെ പേരുകളാണ് കൂടാതെ ഇത് ആർക്കും പഠിപ്പിക്കാനും കഴിയും അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ അടിസ്ഥാനപരമായി ഒരാൾ അർത്ഥമാക്കുന്നത് കോഴ്സ് ഏത് അധ്യാപകനും പഠിപ്പിക്കാം അധ്യാപകന് ഏത് പുസ്തകവും സ്വീകരിക്കാം അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളും ഉണ്ടാകാം അവിടെയും ഇത് സംഭവിക്കാം ഇപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങളെ സംബന്ധിച്ചതാണ് അതായത് അവിടെ അടിസ്ഥാനപരമായി പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ ഇല്ല എന്നതാണ് അതിനാൽ ഇത് ബിസിഎൻഎഫിൽ ആണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബന്ധം ബിസിഎൻഎഫിലാണ് കാരണം ഒരു പ്രവർത്തനപരമായ ആശ്രിതത്വം മാത്രമേയുള്ളൂ ഒന്നും സാധുതയുള്ളതല്ല അതിനാൽ ഇതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു പക്ഷേ പരിഷ്ക്കരണ അപാകതകൾ ഇപ്പോഴും ഉണ്ട് അതിനാൽ ഈ വിഷയത്തിൽ ഒരു പരിഷ്കരണ അപാകതയുണ്ട് അതിനാൽ ഈ ബന്ധം ബിസിഎൻഎഫിലാണെങ്കിലും നോർമലൈസേഷന്റെ കാഴ്ചപ്പാടിൽ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു അതിനാൽ ഇത് 1NF 2NF 3NF BCNF എന്നിവയിലാണ് ഇതെല്ലാം അതിനാൽ എല്ലാം ശരിയാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഒരു പരിഷ്കരണ അപാകതയുണ്ട് എന്തുകൊണ്ടാണ് ഒരു പരിഷ്കരണ അപാകത ഉള്ളത് ഡാറ്റാബേസ് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ അധ്യാപകൻ വന്നുവെന്ന് ഒരാൾക്ക് പരിഗണിക്കാം അങ്ങനെ ഡാറ്റാബേസ് പഠിപ്പിക്കാൻ കഴിയുന്ന അധ്യാപകന്റെ പേര് വിഎൻ എന്ന് അവതരിപ്പിക്കുക ഇപ്പോൾ അത് സ്വീകരിച്ച രണ്ട് പുസ്തകങ്ങൾ ഉണ്ടാകാം അതിനാൽ FDB DBM അതിനാൽ നിങ്ങൾക്ക് രണ്ട് ട്യൂപ്പുകളും ചേർക്കേണ്ടതുണ്ട് അതിനാൽ പുതിയ വിവരങ്ങളുടെ ഒരു ഭാഗം മാത്രമേ ഡാറ്റാബേസിൽ ചേർക്കുന്നുള്ളൂവെങ്കിലും രണ്ട് ട്യൂപ്പിളുകൾ ചേർത്തിരിക്കുന്നു അതുപോലെ എബി ഇന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തുപോകുകയും അപ്പോൾ അവിടെ ഒരു അധ്യാപകൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അത് ഡിലീറ്റ് ചെയ്തു അങ്ങനെ ചെയ്താൽ രണ്ട് ട്യൂപ്പലുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ പലതും അതിനാൽ ഈ ബന്ധത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ പ്രവർത്തനപരമായ ആശ്രിതത്വത്തിനും കീകൾക്കും ഒരു പരിധിവരെ മാത്രമേ ഒരു ബന്ധം സാധാരണമാക്കാൻ കഴിയൂ എന്നതാണ് അതിനാൽ ഒരു ഡാറ്റാബേസിന്റെ രൂപകൽപ്പന ഒരു പരിധിവരെ മികച്ചതാക്കാൻ ഇതിന് കഴിയും ഇത് ഏതെങ്കിലും പരിഷ്ക്കരണ അപാകതയിൽ നിന്ന് പൂർണമായി നഷ്ടപ്പെടുത്താൻ കഴിയില്ല അതിനാൽ പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങളും കീകളും ഉപയോഗിച്ച് സാധ്യമായ എല്ലാ സാധാരണ രൂപങ്ങളും ഒരാൾ ഉൾക്കൊള്ളുന്നുവെങ്കിലും ഇപ്പോഴും പരിഷ്ക്കരണ അപാകതകൾ ഉണ്ടാകാം അതിനാൽ മൾട്ടി വാല്യൂഡ് ആശ്രിതത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ അടുത്ത വിഷയത്തിന്റെ തുടക്കമായിരിക്കും അത്